എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം അതിനാൽ നമ്മൾ അഞ്ചാം ആഴ്ചയിലാണ് ഈ ആഴ്ച ഞാൻ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സാങ്കേതികവിദ്യയും ആശയവിനിമയവും നമ്മൾ മൊഡ്യൂൾ 3 ലാണ് ഈ മൊഡ്യൂളിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നു നിങ്ങൾ ഇമെയിലുകൾ ഉപയോഗിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ ഇമെയിലുകൾ ഇലക്ട്രോണിക് മെയിലുകളാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ പതിവായി ഉപയോഗിക്കുന്നു നിങ്ങൾ മൊത്തം പ്രഭാഷണങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകം 27 ാം നമ്പർ പ്രഭാഷണത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഫോക്കസ് പോയിന്റായി ഇമെയിൽ ഉപയോഗിച്ച് ഞാൻ കുറച്ച് പ്രഭാഷണങ്ങൾ ചെലവഴിക്കാൻ പോകുന്നു പ്രത്യേകിച്ചും സാങ്കേതികവിദ്യയെക്കുറിച്ചും സാങ്കേതികവിദ്യ യഥാർത്ഥത്തിൽ എങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചും മൃദുവായ കഴിവുകളുടെയും വ്യക്തിത്വത്തിന്റെയും കാര്യത്തിലെന്നപോലെ ഇപ്പോൾ മുൻ പ്രഭാഷണത്തിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ഹൈലൈറ്റുകൾ മനുഷ്യൻറെ വ്യക്തിത്വത്തിൽ മൊബൈലിൻറെ സ്വാധീനത്തെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടാണ് മുൻ പ്രഭാഷണം അവസാനിച്ചത് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു അത് ഇതിനകം തന്നെ മനുഷ്യന്റെ വ്യക്തിത്വത്തെ മാറ്റിമറിച്ചുവെന്ന് സാങ്കേതികവിദ്യ പൊതുവെ മനുഷ്യനെ സൈബോർഗുകളായി മാറ്റുന്നു ഇതും ആളുകളെ മാറ്റിമറിച്ചു ആ അർത്ഥത്തിൽ അത് അതിൻറെ പ്രധാനതയിൽ നിന്ന് വ്യതിചലിച്ചു സമയം ലാഭിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം എന്നാൽ ഇപ്പോൾ അത് വളരെയധികം സമയം എടുക്കുന്നു ഇത് അടിയന്തിരാവസ്ഥയിൽ സഹായിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ വിളിക്കുമ്പോൾ പോലും അടിയന്തിരാവസ്ഥയിലുള്ള ആളുകൾ അത് കാര്യമാക്കുന്നില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വിദൂര കണക്ഷൻ ഒരു വശത്ത് അതെ എന്നാൽ മറുവശത്ത് ഇത് സമീപത്തുള്ള ആളുകളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു ആളുകൾ അകലെയുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് പക്ഷേ അവർ അടുത്തുള്ളവരെ പൂർണ്ണമായും മറക്കുന്നു മനുഷ്യബന്ധങ്ങൾ നിലനിർത്താനാണ് ഇത് കണ്ടുപിടിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് മനുഷ്യബന്ധങ്ങളെ തകർക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ മനുഷ്യർ മോബാർക്കുകളായി മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു അതായത് ചലനാത്മക ജീവികൾ കാരണം അവർ അത് ഉറങ്ങുന്നതിനുമുമ്പ് ഉപയോഗിക്കുന്നു ഉറങ്ങിയതിനുശേഷം അവർ അത് കളിക്കാൻ ഉപയോഗിക്കുന്നു ഗെയിമുകൾ സിനിമകൾ കാണുക സമയം പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുക കണക്കുകൂട്ടൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഭിസംബോധന ചെയ്യുക അത് മനുഷ്യരുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറുന്നതിനായി അവർ അത് ഉപയോഗിക്കുന്നു അതിനാൽ അവർക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ മൊബൈൽ ഉപയോഗ നിലവാരം എന്താണെന്ന് തിരിച്ചറിയാൻ ഞാൻ ഒരു പരിശോധന നടത്തി നിങ്ങൾ ശരിക്കും ആയിത്തീർന്നിട്ടുണ്ടോ മൊബാർക്കുകളും പിന്നെ ഞാൻ നിങ്ങളോട് ആവർത്തനത്തിന്റെ അളവ് അനുസരിച്ച് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടു തീവ്രതയെയും നിങ്ങൾ പറയുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തെയും ആശ്രയിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നു അതെ ഇല്ല ഇത് നിർണ്ണയിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ മോബാർക്കുകളായി മാറിയിട്ടുണ്ടോ എന്നും നമ്മളിൽ ഭൂരിഭാഗവും അങ്ങനെ ചെയ്യുമെന്നും ആയിരുന്നു അവർ ഈ വിഭാഗത്തിൽ പെടുന്നു അതെ നമ്മൾ മോബാർക്കുകളായി മാറിയിരിക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് മൊബൈലിന് അടിമയാണോ അതോ അടിമയാണോ എന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ നോമോഫോബിയ അനുഭവിക്കുന്നുണ്ടോ അത് മൊബൈൽ ഫോബിയയല്ല നിങ്ങൾക്ക് കഴിയില്ല മൊബൈൽ ഇല്ലാതെ ജീവിക്കുക ഇപ്പോൾ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില അടിസ്ഥാന ചോദ്യങ്ങൾ നൽകി നിങ്ങൾ എല്ലാവരും ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ അതെ അതെ അതെ എന്ന് സ്ഥിരമായി പറയുമ്പോൾ നിങ്ങളും ഈ അഭിനിവേശത്താൽ ബുദ്ധിമുട്ടുകയാണ് കംപൽസീവ് ഡിസോർഡർ നിങ്ങൾക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ അതിൽ മുഴുകിയിരിക്കുന്നു അത്രത്തോളം ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾ പിരിമുറുക്കത്തിലാകും മൊബൈൽ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിഷാദം അനുഭവപ്പെടും കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല മൊബൈൽ നിങ്ങൾക്ക് മനുഷ്യരില്ലാതെ ജീവിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വളർത്തുമൃഗങ്ങളില്ലാതെ ജീവിക്കാം വായിക്കാതെ ജീവിക്കാം ഉറങ്ങാതെ ജീവിക്കാം എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു അതിനാൽ മനുഷ്യനാകുന്നതിന് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ ഞാൻ നിഗമനം ചെയ്തു ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് മൊബൈൽ ഒഴിവു സമയം സൃഷ്ടിക്കുക 1 മണിക്കൂർ 2 എന്ന് ആളുകളെ അറിയിക്കുക മണിക്കൂറുകൾ 3 മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഒരു ദിവസം കൊണ്ട് സ്വിച്ച് ഓഫ് ആകും അവർ എന്ത് വിളിച്ചാലും അവർക്ക് നിങ്ങളെ മൊബൈലിൽ ബന്ധപ്പെടാൻ കഴിയില്ല ഒന്നുകിൽ അവർ നിങ്ങളെ ലാൻഡ്ലൈനിൽ വിളിക്കണം അല്ലെങ്കിൽ അവർ ഇമെയിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പക്ഷേ അവർക്ക് നിങ്ങളെ മൊബൈലിൽ ബന്ധപ്പെടാൻ കഴിയില്ല ഇത് നിങ്ങളുടെ ഉറക്ക സമയമാണെന്ന് അവരെ അറിയിക്കുക ഇത് നിങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ് ഇത് നിങ്ങളുടെ വായനാ സമയമാണ് നിങ്ങൾ ലൈബ്രറിയിലാണ് അതിനാൽ നിങ്ങൾക്ക് അസ്വസ്ഥനാകാൻ കഴിയില്ല അതിനാൽ ഇത് അക്ഷരാർത്ഥത്തിലും ആലങ്കാരികമായും അകറ്റി നിർത്തുക എല്ലായ്പ്പോഴും അകലത്തിൽ സൂക്ഷിക്കുക അതിനാൽ ഇത് ഒരു അവിഭാജ്യ ഘടകമാക്കരുത് ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് അർബുദം നൽകുന്നു തുടയിൽ സൂക്ഷിക്കുന്നതും അസ്ഥി അർബുദം നൽകുന്നു അതിനാൽ അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു ഹാൻഡ്ബാഗിലോ സഞ്ചിയിലോ വയ്ക്കാനും പ്രത്യേകം കൊണ്ടുപോകാനും ശ്രമിക്കുക സാധ്യമെങ്കിൽ ലഭ്യമായ വിവിധ തരം സ്പീക്കറുകൾ ഉപയോഗിക്കുക അങ്ങനെ നിങ്ങൾ അത് നിലനിർത്താൻ ശ്രമിക്കും നിങ്ങളിൽനിന്ന് അകന്നു മൊത്തത്തിൽ അതിനെ ഒരു അടിമയായി കണക്കാക്കുക അല്ലാതെ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു യജമാനനല്ല വാച്ച് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ വിലാസം കണ്ടെത്തുന്നതിന് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന മാപ്പ് പോലുള്ള മറ്റ് ഗാഡ്ജെറ്റുകൾക്ക് പകരമായി അത് ഉപയോഗിക്കുക അതിനാൽ അവ ഉപയോഗിക്കുന്നത് തുടരുകയും തുടർന്ന് മൊബൈലിനെ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുഴുവൻ ആത്മാവായി മാറ്റാതിരിക്കുകയും ചെയ്യുക അവസാനമായി മൊബൈൽ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന ചില മൊബൈൽ മര്യാദകൾ ചില മാനദണ്ഡങ്ങൾ ചില സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയുമായി ഞാൻ ഉപസംഹരിച്ചു അതിനാൽ നിങ്ങൾക്ക് മുഖാമുഖം ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ മൊബൈൽ ഒഴിവാക്കാൻ ഞാൻ എടുത്തുപറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ മുകളിലത്തെ നിലയിൽ ഭക്ഷണം കൊണ്ടുവരാൻ നിങ്ങളുടെ അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലും ടെക്സ്റ്റ് സന്ദേശം അയയ്ക്കേണ്ടതില്ല അതിനാൽ നിങ്ങൾക്ക് പോയി വിളിക്കാം നിങ്ങൾ വീണ്ടും മുഖാമുഖം ഇരിക്കുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കരുത് അതിനാൽ അത് ഒഴിവാക്കുക കഴിയുന്നത്ര കുറയ്ക്കുക നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുക മറ്റൊരാൾ പ്രത്യേകിച്ചും മറ്റൊരാളുടെ സമയത്തെക്കുറിച്ച് സഹാനുഭൂതിയുള്ളവരായിരിക്കുക നിങ്ങൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നതുകൊണ്ട് അവരുടെ സമയം ഹൈജാക്ക് ചെയ്യരുത് അവരുടെ സമയത്തിലേക്ക് നുഴഞ്ഞുകയറരുത് നിങ്ങളുടെ മൊബൈൽ ബട്ടണിൽ നിങ്ങൾക്ക് അമർത്താനും ഉടൻ തന്നെ അത് വിളിക്കാനും കഴിയുമെന്നതിനാൽ സമയം ആരെങ്കിലും വ്യക്തിയെ അലോസരപ്പെടുത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുത് കാരണം അത് എന്തോ പറയുന്നു നിങ്ങളുടെ സ്വന്തം മനോഭാവത്തെക്കുറിച്ചും നിങ്ങളുടെ സ്വന്തം സംവേദനക്ഷമതയെക്കുറിച്ചും മറ്റേ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്വന്തം ആശങ്കയെക്കുറിച്ചും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നതിനുള്ള നിബന്ധനകൾ മിക്ക സമയത്തും നമ്മൾ അശ്രദ്ധമായി വളരെ ഉപയോഗിക്കുന്നു അക്രമാസക്തമായ രീതിയിൽ ഞങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അതിനാൽ സോഫ്റ്റ് സ്കിൽസ് യഥാർത്ഥത്തിൽ മൊബൈൽ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മൃദുവായ രീതിയിൽ നിശബ്ദമായി സൂക്ഷിക്കുക മൊബൈൽ ഉള്ളപ്പോഴെല്ലാം സംസാരിക്കുന്നത് കുറയ്ക്കാൻ അനുവദിക്കുക നിശബ്ദ മോഡ് നിങ്ങൾക്ക് ചില കോളുകൾ നഷ്ടമായേക്കാം അതായത് നിങ്ങൾ ആ കോളുകൾ പിന്നീട് കണ്ടെത്തുന്നു അതായത് ഇല്ല പ്രശ്നം എന്നാൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നിശബ്ദ മോഡിൽ തുടരട്ടെ പ്രത്യേകിച്ചും ഔപചാരികവും വളരെ പ്രധാനപ്പെട്ടതുമായ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നും ഞാൻ പറഞ്ഞു ബന്ധ ചർച്ചകൾ ഒന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾ അത് സ്വിച്ച് ഓഫ് മോഡിൽ വയ്ക്കണം ആ പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഉദാഹരണത്തിന് ഒരു അഭിമുഖം അതിനാൽ നിങ്ങളുടെ മൊബൈൽ ഇടയ്ക്കിടെ ശബ്ദിക്കുന്നത് നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഉറപ്പാണ് കാരണം നിങ്ങളെക്കാൾ ആത്മാർത്ഥതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ മാർക്കിൽ നല്ലത് എന്നിരുന്നാലും നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന അധിക പാഠ്യപദ്ധതി പ്രവർത്തനങ്ങൾ ചെയ്തു മെഡലുകൾ നേടി അതെല്ലാം ആ സമയത്ത് നിങ്ങൾ കാണിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ പങ്കെടുക്കുന്ന വ്യക്തിയോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുക അവസാനമായി നിങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ ഇമെയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ആ വ്യക്തിയെ വീണ്ടും വീണ്ടും വിളിക്കുന്നതിനുപകരം ഇമെയിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുമായി മൊബൈൽ ഉപയോഗിക്കുകയും തുടർന്ന് വ്യക്തിയുടെ സമയം എടുക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അത് ലളിതമായി ഇമെയിലിൽ വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തി അത് ഇടയ്ക്കിടെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഒരു മികച്ച രീതിയാണ് ഈ പ്രഭാഷണവും അടുത്ത രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിലുകൾ ഉപയോഗിക്കുന്നതിന്റെ ഈ വശവും തുടർന്ന് നിങ്ങൾ ഇമെയിലുകൾ ശരിയായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യവും നിങ്ങൾ ഇമെയിലുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിലേക്ക് പോകുന്നതിനുമുമ്പ് ഞാൻ ചിലതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു ഇമെയിലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് ഈ ഉദ്ധരണികൾ നോക്കാം ആദ്യത്തേത് പറയുന്നത് ഭൂമിയുടെ പരിസ്ഥിതിയിലെ ഏറ്റവും വലിയ മലിനീകരണ ഘടകം വൈദ്യുതകാന്തിക മണ്ഡലങ്ങളുടെ വ്യാപനം ആഗോളതലത്തിൽ അത് താപനത്തേക്കാളും വർദ്ധനവിനേക്കാളും വളരെ വലിയ ഭീഷണിയാണെന്ന് ഞാൻ കരുതുന്നു പരിസ്ഥിതിയിലെ രാസ ഘടകങ്ങൾ അതിനാൽ രണ്ട് തവണ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട റോബർട്ട് ബെക്കറിൽ നിന്നാണ് ഈ ഉദ്ധരണി വരുന്നത് ഇപ്പോൾ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന വസ്തുത തുടർന്ന് മനഃപൂർവ്വം ഞാൻ ഉദ്ധരണി നൽകി ഞാൻ സാധാരണയായി എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്ന രീതിക്ക് പകരം തുടക്കത്തിൽ അവസാനം ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കാരണം നിങ്ങളുടെ ചിന്തകളിൽ സംഭവിക്കേണ്ട മാറ്റം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇമെയിൽ ഉപയോഗത്തിനും സാധാരണയായി മൊബൈൽ ഇമെയിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിനാൽ മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ വൈദ്യുതകാന്തിക മണ്ഡലങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞതുപോലെ കാൻസറും മറ്റ് രോഗങ്ങളും മനുഷ്യർക്ക് എല്ലാത്തരം ദോഷങ്ങളും വരുത്തുന്നതിന് ഉത്തരവാദിയാണ് രോഗങ്ങൾ പക്ഷേ പക്ഷികളുടെ കാര്യത്തിൽ ചെറിയ പക്ഷികൾ കുരുവികൾ അതിനാൽ അവർ മരിക്കുകയോ അല്ലെങ്കിൽ ഈ വൈദ്യുതകാന്തിക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നു തേനീച്ചകളുടെ പാതയെ ബാധിക്കുന്നു ഇതിനെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ ഇത് ആഗോളതാപനത്തേക്കാൾ മോശമാണെന്ന് നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാൾ അഭിപ്രായപ്പെടുന്നു അത് ക്രമാനുഗതമായി സംഭവിക്കുന്നു പക്ഷേ ഇത് ആസന്നമാണ് ഇത് ഉടൻ സംഭവിക്കുന്നു കൂടാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരാൾ മെർലിൻ ഒ സൌവാൻഡിൽ നിന്നുള്ളയാളാണ് അതിനാൽ ഇമെയിൽ തൽക്ഷണ സന്ദേശമയയ്ക്കലും സെൽ ഫോണുകളും നമുക്ക് അതിശയകരമായ ആശയവിനിമയ കഴിവ് നൽകുന്നുവെന്ന് അവർ പറയുന്നു എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം ചെറിയ ലോകങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ ആശയവിനിമയം പൂർണ്ണമായും ക്രമരഹിതമാണ് നമ്മുടെ ആശയവിനിമയം ക്രമീകരിക്കുന്നതിനായി ഞങ്ങൾ ഈ ഫോണുകളെല്ലാം ഇമെയിൽ സെൽ ഫോണുകൾ കണ്ടുപിടിച്ചുവെന്ന് ഓർക്കുക നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെട്ട രീതിയിൽ രൂപപ്പെടുത്താനും പക്ഷേ നിർഭാഗ്യവശാൽ അവ പൂർണ്ണമായും അസംഘടിതമാണ് അവർ അസംഘടിതരാണെന്ന് മാത്രമല്ല അവർ നമ്മെത്തന്നെ അസംഘടിതരാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിന്റെയും വ്യക്തിത്വത്തിന്റെയും കാര്യത്തിൽ ചില അടിസ്ഥാന തത്വങ്ങൾ നൽകാൻ പോകുന്നു അതേ സമയം നമുക്ക് സാധാരണയായി ഉപയോഗിക്കാൻ കഴിയുന്ന കഴിവുകളാണെന്ന് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ആശയവിനിമയ വശങ്ങളുടെ നിബന്ധനകൾ ഈ വാക്കുകളെല്ലാം അക്ഷരത്തിൽ ആരംഭിക്കുന്നതിനാൽ അവരെ അഞ്ച് പി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പി യും അവയും സോഫ്റ്റ് സ്കിൽസിന്റെയും വ്യക്തിത്വ വികസനത്തിന്റെയും പ്രധാന തത്വങ്ങളാണ് ആദ്യത്തേത് ആസൂത്രണമാണ് അതിനാൽ നിങ്ങൾ മുൻകൂട്ടി ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കണം തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കണം യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തുന്നതിനുമുമ്പ് ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും തുടർന്ന് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട ലളിതമായ ഒന്ന് പരിശോധിക്കുക അതിനാൽ ഈ സമയത്ത് നിങ്ങൾ വായിക്കുന്ന സിലബസ് എന്തായിരിക്കും വാസ്തവത്തിൽ നിങ്ങൾക്ക് ശരിയായ സമയക്രമം ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യം എളുപ്പമുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുമോ ഇത്രയധികം സമയം ചെലവഴിക്കുന്ന ഒരു കഠിനമായ സമയത്തിനായി നിങ്ങൾ പോകും നിങ്ങൾ സമയം ആസൂത്രണം ചെയ്യുമോ നിങ്ങൾ ശ്രമിക്കുമോ നിങ്ങൾ എത്ര പെൻസിലുകൾ കൊണ്ടുപോകും എന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് എത്ര പേനകൾ ആവശ്യമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒരു പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോവുക അതിനാൽ ആസൂത്രണവും തയ്യാറെടുപ്പും അതിനാൽ ഒരിക്കൽ നിങ്ങൾ ആസൂത്രണം ചെയ്താൽ ഞാൻ ഇവയെല്ലാം എടുക്കണം അതിനാൽ തയ്യാറെടുപ്പ് നിങ്ങളുടെ ജാഗ്രതയാണ് അതിനാൽ നീന്തൽക്കുളത്തിൽ പോകാൻ നിങ്ങൾ പദ്ധതിയിടുന്നു അതിനാൽ നിങ്ങൾ അവിടെ പോയി തുടർന്ന് നിങ്ങളുടെ നീന്തൽ വസ്ത്രം എവിടെയാണെന്ന് ആ വ്യക്തി പറയുന്നു അതിനാൽ നീന്താൻ നീന്തൽ വസ്ത്രം ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ലെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ അത് ഇല്ലാതെ നിങ്ങൾക്ക് വരാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശത്തിൻറെ കാര്യത്തിലും തയ്യാറെടുപ്പ് ഇല്ല അറിവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ആശയവിനിമയ പ്രവർത്തനം നൽകുക നിങ്ങൾ തയ്യാറാണെന്ന് കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അറിയുക അതിനാൽ അതാണ് തയ്യാറെടുപ്പ് അടുത്ത ഘട്ടം സ്ഥിരോത്സാഹമാണ് അതിനാൽ നിങ്ങൾ തയ്യാറാണെന്ന് കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വീണ്ടും എത്തുന്നു പക്ഷേ ആളുകൾ തയ്യാറല്ല നിന്നെ സ്വീകരിക്കാൻ അതിനാൽ ചിന്തയെ സ്വാധീനിക്കാൻ നിങ്ങളുടെ ആശയവിനിമയ കഴിവ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം വസ്തുതകൾ ഉപയോഗിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ആണെന്ന് ഉദാഹരണങ്ങളിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കാൻ ശ്രമിക്കുന്നത് സത്യമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവതരണക്ഷമതയും വളരെ പ്രധാനമാണ് ശാരീരികമായി പോലും വ്യക്തിപരമായി അവതരിപ്പിക്കുന്നത് പോലെ അലങ്കാര രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക നിങ്ങൾ തന്നെ അതിനാൽ നന്നായി വസ്ത്രം ധരിച്ചാലും വസ്ത്രധാരണം ആദ്യത്തേത് മികച്ചതാക്കാൻ പോകുന്നു ആളുകൾ വായിക്കാൻ പോകുന്ന കവർ അനുസരിച്ച് ആളുകൾ പുസ്തകത്തെ വിലയിരുത്താൻ പോകുന്നില്ല എന്ന ധാരണ ഉള്ളിൽ എന്താണ് ഉള്ളടക്കം അതിനാൽ പലപ്പോഴും നിങ്ങൾ ഒരു ട്രെയിലർ കാണുകയും തുടർന്ന് ട്രെയിലർ ഇഷ്ടപ്പെടുമെന്ന് കരുതി സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു സിനിമയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നു പക്ഷേ നിങ്ങൾ പോകുന്നു അപ്പോൾ നിങ്ങൾ ദയനീയമായി നിരാശനാകുന്നു ആദ്യത്തെ 10 15 മിനിറ്റിനുള്ളിൽ ഉള്ളടക്കം ഏറ്റവും ആകർഷകമായ രീതിയിൽ വിതരണം ചെയ്യാത്തതിനാൽ സാധ്യമായ രീതിയിൽ ഇത് പൂർണ്ണമായും ക്രമരഹിതമാണ് കഥാസന്ദർഭമില്ല അതിനാൽ ചുരുക്കത്തിൽ ഇമെയിൽ ആശയവിനിമയത്തിൻറെ കാര്യത്തിലും അവതരണക്ഷമത അർത്ഥമാക്കുന്നത് നിങ്ങൾ ആയിരിക്കണം എന്നാണ് അക്ഷരപ്പിശകുകളൊന്നുമില്ലാതെ ഇത് അവതരിപ്പിക്കാൻ കഴിയും വ്യാകരണ പിശകുകൾ ഖണ്ഡിക അതിൽ ഇടം നൽകുന്നു മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൃത്തികെട്ട രൂപം കാണാതിരിക്കാൻ കണ്ണിന് വളരെ സന്തോഷകരമായിരിക്കണം അവസാനമായി സ്ഥിരോത്സാഹം പ്രത്യേകിച്ച് സാധാരണയായി സോഫ്റ്റ് സ്കിൽസിന്റെ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം അതിനാൽ പങ്കെടുക്കുന്നവരിൽ ചിലർ പറയുന്ന കാര്യം ഫോറത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാണ് അവരുടെ ശീലം മാറ്റാൻ കഴിയുന്നതിൽ അവർ സന്തുഷ്ടരാണെന്നതിനാൽ അവർ അവരുടെ പാഠങ്ങൾ ഓർക്കുന്നു അവർ അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ മറ്റുള്ളവർ അത് പറയുന്നു അതിനാൽ എനിക്ക് അത് പിന്തുടരാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാമോ അതിനാൽ നിങ്ങൾക്ക് സ്ഥിരോത്സാഹം ആവശ്യമുള്ള സമയമാണിത് അതിനാൽ ആവർത്തിക്കുക അതിനാൽ നിങ്ങൾക്ക് 530 ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾ 730 ന് ആരംഭിച്ചാൽ നന്നായിരിക്കും അതിനാൽ അടുത്ത ദിവസം 7 നും മൂന്നാം ദിവസം 630 നും പതുക്കെ 6 നും പോകാൻ ശ്രമിക്കുക തുടർന്ന് രാത്രി 530 ലേക്ക് നീങ്ങുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഏത് ശ്രമവും സഹിഷ്ണുതയോടെ തുടരുക എടുത്തത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിനടുത്തേക്ക് കൊണ്ടുപോകുകയും വിജയം കൈവരിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് ഈ തത്വങ്ങളിൽ ചിലത് നോക്കാം അവ മൃദുവായ കാര്യങ്ങളിൽ പൊതുവായതാണെങ്കിലും കഴിവുകളും വ്യക്തിത്വ വികസനവും ഇമെയിലുകൾ നോക്കുന്നതിലും ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിന് മുമ്പും ഇത് എങ്ങനെ പ്രയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം തത്വങ്ങൾ പോലുള്ള ആശയങ്ങൾ നിങ്ങളോട് പറയാൻ പോകുക നിങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ നിങ്ങൾ ഇമെയിലുകൾ എഴുതുന്നതിൽ പിന്തുടരേണ്ടതുണ്ട് ഇവയിൽ ചിലത് പൂർണ്ണമായും ലംഘിക്കുന്ന ഇമെയിലുകളുടെ ഒരു അനുഭവം നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോഫ്റ്റ് സ്കിൽസിൻറെ മാനദണ്ഡങ്ങളും ചില മെയിലുകളും നിങ്ങളിൽ ചിലർ പോലും ചിലർക്ക് എഴുതിയിരിക്കാം നിങ്ങൾ അത്തരം മെയിലുകളാണ് എഴുതുന്നതെന്ന് അറിയാത്ത ആളുകൾ ചില ഉദാഹരണങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇപ്പോൾ ഈ ആദ്യത്തേത് നോക്കൂ ഇത് എനിക്ക് ലഭിച്ച ഒരു ഇമെയിലാണ് അത് ബഹുമാന്യനായ സർ എന്ന് പറയുന്നു അമിത് പ്രകാശ് എന്നാണ് അദ്ദേഹം വലിയ അക്ഷരത്തിൽ ഇട്ടിരിക്കുന്നത് അതിനാൽ എനിക്ക് പേര് അറിയണം പക്ഷേ വിഷയം എന്താണെന്ന് എനിക്കറിയില്ല ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് ഈ വ്യക്തി ഒരു വിദ്യാർത്ഥിയാണോ അതോ കച്ചവടക്കാരനാണോ അതോ എൻ്റെ വിദൂരസുഹൃത്താണോ എന്ന് എന്നോട് ചോദിക്കുക ഈ വ്യക്തിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഈ ഇമെയിൽ എഴുതിയത് ഈ വ്യക്തിയുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല ഇമെയിൽ ഒഴികെ എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവിടെ വന്ന ഐഡി ഫോൺ നമ്പർ ഒന്നുമില്ല എന്നിട്ട് നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽപ്പോലും അവതരണക്ഷമതയുടെ നിബന്ധനകൾ അതിനാൽ ഉദാഹരണത്തിന് വലിയ അക്ഷരങ്ങളുടെ ഉപയോഗം ഈ ആർ വലിയ അക്ഷരമായിരിക്കണം എസ് വലിയ അക്ഷരമായിരിക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോമ ഇഷ്ടപ്പെടുന്നു അതിനാൽ എന്റെ m വലിയ അക്ഷരമായിരിക്കണം ഇത് വലിയ അക്ഷരങ്ങളിൽ എനിക്ക് ആവശ്യമില്ല വാക്യം അവസാനിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ഇപ്പോൾ താൻ എഴുതിയതിന്റെ ഉദ്ദേശ്യവും യഥാർത്ഥത്തിൽ എഴുതാൻ ആഗ്രഹിച്ചിരുന്നോ എന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എനിക്കോ മറ്റാർക്കെങ്കിലും അത് വ്യക്തമല്ലായിരുന്നു നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം ഇനിപ്പറയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞു എന്താണ് കുറവെന്നും എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുന്നതെന്നും നിങ്ങൾ എന്നോട് പറയണം ഇപ്പോൾ ഐഐടികൾ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഇൻസ്ട്രക്ടർ ഉണ്ട് അത് ഒരു കോഴ്സ് വാഗ്ദാനം ചെയ്യുന്ന അധ്യാപകനാണ് തുടർന്ന് വിദ്യാർത്ഥികൾ കോഴ്സ് എടുക്കാൻ അധ്യാപകനോട് അഭ്യർത്ഥിക്കണം നിങ്ങളുടെ വിദ്യാർത്ഥിയെ ഒരു കോഴ്സ് എടുക്കാൻ അനുവദിക്കണോ എന്നത് പൂർണ്ണമായും ഇൻസ്ട്രക്ടറുടെ അധികാരമാണ് അതിനാൽ എന്റെ ചില വിദ്യാർത്ഥികളുമായി ഞാൻ നേരിട്ട ചില സാഹചര്യങ്ങളാണിവ പക്ഷേ ഞാൻ മാറി ഇമെയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ പേര് അല്പം പരിഷ്ക്കരിച്ച ചില സാഹചര്യങ്ങൾ ഇമെയിൽ സാഹചര്യത്തെ അനുഗമിക്കുന്ന സോഫ്റ്റ് സ്കിൽസ് നിർണായക പങ്ക് വഹിക്കുന്നു ഞാൻ ഇത് വിശദീകരിക്കുമ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കോഴ്സ് അഭ്യർത്ഥിക്കാൻ സഞ്ജയ് ഇൻസ്ട്രക്ടറുടെ ഓഫീസിൽ എത്തിയ സാഹചര്യം നോക്കൂ രജിസ്ട്രേഷൻ എന്നതിനർത്ഥം സഞ്ജയ് തന്റെ കോഴ്സ് ചെയ്യാൻ ഇൻസ്ട്രക്ടറുടെ അടയാളം ആഗ്രഹിക്കുന്നു എന്നാണ് കുറച്ച് ചർച്ചകൾക്കും ഹാജർനിലയെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതിനും ശേഷം പരിശീലകൻ അവനെ കോഴ്സിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു അദ്ദേഹം സഞ്ജയിനോട് ചോദിക്കുന്നു നോക്കൂ അത് ഇവിടെ എടുക്കുന്നതിന് മുമ്പ് അദ്ധ്യാപകർ മനസ്സിലാക്കണം വിദ്യാർത്ഥിക്ക് ശരിക്കും താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കുക തുടർന്ന് അവർ അനുവദിക്കുന്നു നല്ല കോഴ്സുകൾ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതിനാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്വയം അനുവദിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അതിനാൽ സഞ്ജയിന് കോഴ്സ് ലഭിച്ചു മിക്കവാറും ഇൻസ്ട്രക്ടർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു ഒരു അപേക്ഷ എഴുതി അംഗീകാരം നേടാൻ അദ്ദേഹം സഞ്ജയിനോട് ആവശ്യപ്പെടുന്നു സഞ്ജയ് ഇൻസ്ട്രക്ടറുടെ പ്രിന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന പേപ്പറുകൾ നോക്കുകയും എന്നോട് ഒരു പേപ്പർ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇൻസ്ട്രക്ടർ സഞ്ജയിന് ഒരു പേപ്പർ നൽകിയ ശേഷം സഞ്ജയ് അദ്ദേഹത്തോട് ഒരു പേന നൽകാൻ ആവശ്യപ്പെടുന്നു എൻറെ മുറിയിൽ നിന്ന് പുറത്തുകടക്കുക എൻറെ കോഴ്സിൽ ചേരാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ലെന്ന് പറയുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജയിനെ കോഴ്സിൽ എടുക്കാൻ സമ്മതിച്ച ഇൻസ്ട്രക്ടർ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചത് അവനെ പിന്നീട് വ്യക്തമായും നിങ്ങൾക്കറിയാമോ അദ്ദേഹം അത് സ്വീകരിച്ചപ്പോൾ താൻ നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അത് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കരുതി വൃത്തിയായി എഴുതി അത് എങ്ങനെ അവതരിപ്പിക്കാമെന്നും അദ്ദേഹത്തിന് അറിയാം എന്നാൽ ഈ വ്യക്തി നൽകുന്ന അഭ്യർത്ഥന നിങ്ങൾ നോക്കുകയാണെങ്കിൽപ്പോലും അദ്ദേഹം എനിക്ക് തരൂ എന്ന് പറയുന്നു ഒരു പേപ്പർ ദയവായി എനിക്ക് ഒരു പേപ്പർ നൽകരുത് സർ അത് ഒരു അഭ്യർത്ഥന ഫോമിലല്ല അത് ഏതാണ്ട് സോഫ്റ്റ് സ്കിൽസ് ഇല്ലാത്ത ഒരു കമാൻഡ് പോലെ നിർദ്ദേശിക്കുന്നു അതിനാൽ അവൻ സ്വീകരിക്കുന്ന അവസാനത്തിലാണ് പക്ഷേ അത് നൽകാൻ അവൻ മറ്റേ വ്യക്തിയോട് കൽപ്പിക്കുന്നു അവനോട് മാത്രമല്ല ഒന്നാമതായി അവൻ ഒരു കോഴ്സ് ചോദിക്കാൻ പോകുകയാണെങ്കിൽ അവൻ പോകണം ഒരു പേപ്പറും പെൻസിലും എന്നിട്ട് സ്വയം ആപ്ലിക്കേഷൻ എഴുതുകയും അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു അതിനാൽ ആസൂത്രണം ഇല്ല തയ്യാറെടുപ്പ് ഇല്ല അവതരണശേഷി ഇല്ല ഇപ്പോൾ അദ്ദേഹത്തിന് സഹിഷ്ണുത പുലർത്താൻ കഴിയും അതിനാൽ സർ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാൻ കഴിയും അതിനാൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു അതിനാൽ ദയവായി ചെയ്യുക ഞാൻ ചെയ്തതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ 5 മിനിറ്റിനുള്ളിൽ വരും അതിനാൽ അയാൾക്ക് പുറത്തേക്ക് പോകാം മറ്റൊരാൾ നന്നായി എഴുതുകയും വീണ്ടും ക്ഷമ ചോദിക്കുകയും തുടർന്ന് പരിശീലകനോട് പറയുകയും ചെയ്യാം അത് അതിനെ മാറ്റാൻ കഴിയുമായിരുന്നുവെന്ന് അദ്ദേഹം ആവർത്തിക്കില്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നത് സ്ഥിരോത്സാഹം എന്നാണ് എന്നാൽ നിങ്ങൾ ഇൻസ്ട്രക്ടറുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഇൻസ്ട്രക്ടർ ന്യായീകരിക്കപ്പെടുന്നു അതെ എന്നും ഇല്ല എന്നും ഉത്തരം പറയാം അതിനാൽ ഇൻസ്ട്രക്ടർ തന്നെ സോഫ്റ്റ് സ്കിൽസിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ലെങ്കിൽ അവൻ ന്യായീകരിക്കപ്പെടുന്നില്ല ഞാൻ ഇൻസ്ട്രക്ടർ ഷൂസിൽ ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വേഷം ചെയ്യുന്നു എനിക്ക് വിദ്യാർത്ഥികളെയും വേണം സോഫ്റ്റ് സ്കിൽസ് പഠിക്കാൻ അതിനാൽ അടുത്ത ചോദ്യം കാരണം താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് വിദ്യാർത്ഥിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിച്ചത് ഇൻസ്ട്രക്ടർമാർ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനുള്ള കാരണം സഞ്ജയിന് അറിയാമോ സോഫ്റ്റ് സ്കിൽസ് ഇല്ലാത്ത ആളുകളോട് ഞാൻ ദേഷ്യപ്പെടാൻ കാരണം ഇതാണ് എന്ന് ഇൻസ്ട്രക്ടർ ആ വ്യക്തിയോട് പറയുന്നു അദ്ധ്യാപകരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയത് എന്താണെന്ന് പോലും അറിയില്ല പ്രത്യേകിച്ചും ആ വ്യക്തി സഹാനുഭൂതിയുള്ളവനല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് പെരുമാറുന്നതെന്ന് അവന് മനസ്സിലാകില്ല അനാവശ്യമായി എന്നോട് ദേഷ്യപ്പെടുന്നു ഞാൻ ഒരു പേപ്പർ ചോദിച്ചതേയുള്ളൂ അദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ എന്ന് പക്ഷേ എന്തുകൊണ്ടാണ് അവൻ എന്നോട് ദേഷ്യപ്പെടുന്നത് അതിനാൽ അദ്ദേഹത്തിന് എനിക്ക് ഒരു പേപ്പർ നൽകാൻ കഴിയില്ലേ സഞ്ജയിന് ഭാവിയിൽ ഈ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമോ സഹാനുഭൂതി വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ അവൻ തൻറെ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നില്ലേ എന്ന് കൃത്യമായി അറിയാം അവൻ സ്വയം അവബോധം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ അവൻ മാറുമെന്ന് അവനോട് പറയുന്നില്ലെങ്കിൽ അതേ തെറ്റ് തുടർന്നുകൊണ്ട് അദ്ദേഹം ഇല്ലാതെ ഇൻസ്ട്രക്ടറുടെ അടുത്തേക്ക് പോകുന്നത് തുടരും പേനയും പേപ്പറും അദ്ദേഹം കമാൻഡിംഗ് ടോണിൽ ചോദിക്കുന്നത് തുടരും ഇൻസ്ട്രക്ടർ തുടരും ആരെങ്കിലും അവനോട് മാറാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അവനോട് ഇതുപോലെ സംസാരിക്കുക ഇത് വ്യക്തമായി കാണുകയും എന്നോട് പറയുകയും ചെയ്യുന്ന കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം ഇൻസ്ട്രക്ടർ ഈ അഭ്യർത്ഥന അംഗീകരിക്കുമോ എന്ന് കോഴ്സിന്റെ അംഗീകാരം ലഭിക്കാൻ രോഹിത് തിടുക്കത്തിലായിരുന്നു നേരത്തെ തന്നെ രജിസ്ട്രേഷൻ വൈകിയിരുന്നു ഇൻസ്ട്രക്ടറുടെ ഓഫീസിലേക്ക് ഓടിയെത്തിയ അദ്ദേഹം വാതിലിൽ മുട്ടുകയും തുടർന്ന് അകത്തേക്ക് കയറുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഇൻസ്ട്രക്ടറുടെ മുന്നിൽ ഇരുന്ന് അദ്ദേഹം സ്വന്തമായി ഒരു കസേര വലിച്ച് ഇരുന്നു മറ്റുള്ളവയേക്കാൾ അപേക്ഷിക്കുകയും ഞാൻ തിടുക്കത്തിലാണ് എനിക്ക് ഈ കോഴ്സ് എടുക്കണമെന്ന് പറയുകയും ചെയ്തു നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇൻസ്ട്രക്ടർ ഈ അഭ്യർത്ഥന അംഗീകരിക്കും കാരണം അവന്റെ തിടുക്കം അവൻ ആസൂത്രിതനോ ഒട്ടും തയ്യാറല്ലെന്നും അവിടെ പോകുമ്പോൾ പോലും അവൻ ആസൂത്രിതനാണെന്നും കാണിക്കുന്നു ശരിയായ രീതിയിൽ സ്വയം അവതരിപ്പിക്കാത്തതിനാൽ അവൻ അടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് സോഫ്റ്റ് സ്കിൽസ് അല്ല ഇത് നിങ്ങൾ അക്രമാസക്തനാണെന്ന് കാണിക്കുന്നു നിങ്ങൾ പരുക്കൻ അപരിഷ്കൃതനായ ആളാണ് ഞാൻ വരട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ അപരിഷ്കൃതമായ പെരുമാറ്റം വീണ്ടും കാണിക്കുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്നു ചില വിദ്യാർത്ഥികൾ ഇരിക്കുന്നതിനാൽ നിങ്ങൾ ക്യൂവിൽ നിൽക്കണം അതിനാൽ അദ്ദേഹം ഓടിയെത്തി കസേര വലിച്ചു എന്നിട്ട് ഇരുന്നു തുടർന്ന് അദ്ദേഹം തൻറെ അപേക്ഷ മറ്റുള്ളവയെക്കാൾ ഉയർത്തിപ്പിടിക്കുകയും തുടർന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ കമാൻഡ് ചെയ്യുന്നു തുടർന്ന് സർ എന്ന് പറയുന്നതിനുപകരം ദയവായി ഇതിൽ ഒപ്പിടുക ഞാൻ തിടുക്കത്തിലാണ് അതിനാലാണ് ഇത് മുമ്പ് ലഭിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് വളരെ താൽപ്പര്യമുണ്ട് നിങ്ങളുടെ കോഴ്സിൽ ഇത് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതിനെ മര്യാദയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിനുപകരം മുഴുവൻ ആക്രമണാത്മക പെരുമാറ്റവും അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത് ഇൻസ്ട്രക്ടറെ ഈ അഭ്യർത്ഥന നിരസിക്കാൻ പ്രേരിപ്പിക്കും അവൻ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഒരു പരിശീലകനും അവനെ ഈ കോഴ്സ് ചെയ്യാൻ അനുവദിക്കാൻ സാധ്യതയില്ല ഇപ്പോൾ അടുത്തത് നോക്കൂ അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞു അവർക്കാണ് സോഫ്റ്റ് ഇല്ലാത്തത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മനീഷും ഹരീഷും ഇൻസ്ട്രക്ടറുടെ വാതിലിൽ സൌമ്യമായി മുട്ടുന്നു അതിനാൽ സൌമ്യത സൂചിപ്പിക്കുന്നത് അവർ മര്യാദയുള്ളവരാണെന്നും നമ്മൾ വരട്ടെ എന്ന് മാന്യമായി ചോദിക്കുന്നു സർ അതിനാൽ ഇൻസ്ട്രക്ടർ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നത് ശരിക്കും ആകർഷകമാണ് അതെ അകത്തേക്ക് വരൂ അവർ നന്ദി സർ എന്ന് പറഞ്ഞു അതിനാൽ ഇൻസ്ട്രക്ടർ വളരെ ആകർഷകമാണ് ഇൻസ്ട്രക്ടർ അവരെ സ്വീകരിക്കാൻ അനുവദിച്ച അവരുടെ നല്ല പെരുമാറ്റത്തിൽ മതിപ്പുളവാക്കുകയും ചെയ്തു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞപ്പോൾ അവർ വീണ്ടും ഇൻസ്ട്രക്ടർക്ക് നന്ദി പറഞ്ഞു സർ ഞങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വീകരിക്കണമെന്നും അതിന് നിങ്ങളുടെ അനുമതി വേണമെന്നും അവർ താഴ്മയോടെ പറഞ്ഞു നിങ്ങൾ അപേക്ഷ എഴുതിയിട്ടുണ്ടോ എന്ന് ഇൻസ്ട്രക്ടർ അതെ എന്ന് ചോദിച്ചു സർ ദയവായി പരിശോധിച്ച് അംഗീകരിക്കുക അവർ ആസൂത്രണം ചെയ്ത സോഫ്റ്റ് സ്കിൽസിൽ വളരെ മികച്ചവരാണെന്ന് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ തോന്നുന്നു അവർ തയ്യാറാണ് അവർ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു അവർ ശ്രമിച്ച് സഹിഷ്ണുത പുലർത്തുന്നു അഭ്യർത്ഥന മാന്യമായി പറഞ്ഞാൽ ഇൻസ്ട്രക്ടർ ഇത് സ്വീകരിക്കുമോ അതോ എന്താണ് സ്വീകരിക്കാത്തതെന്ന് അവൻ അത് സ്വീകരിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ യഥാർത്ഥത്തിൽ പറയാനുള്ള കാരണം ആയിരിക്കാം ഇൻസ്ട്രക്ടറുടെ പ്രതികരണത്തിന് കാരണം ഇൻസ്ട്രക്ടർ അത് നോക്കി അവരോട് ദേഷ്യപ്പെട്ടു അവരുടെ മര്യാദയുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം അവരെ ആക്രമിക്കുകയും എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് കത്തിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയും ചെയ്തു അവർ മാന്യരായിരുന്നു അവർക്ക് സോഫ്റ്റ് സ്കിൽസ് ഉണ്ടായിരുന്നു അതിനാൽ ഞാൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് തെറ്റ് സംഭവിച്ചത് ഇൻസ്ട്രക്ടറുടെ പേര് പ്രൊഫസർ രാജേഷ് എന്നാണ് ശേഖറും അവർ പ്രൊഫസർ രാജേശ്വരിയെയും ഇപ്പോൾ പ്രൊഫസർ രാജേശ്വരിയെയും രാജേഷ് ശേഖറിനെയും എഴുതി ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതിനാൽ അവർ ഈ വ്യക്തിയെ സ്ത്രീയുടെ പേരുമായി തെറ്റിദ്ധരിച്ചു ഇപ്പോൾ ഇൻസ്ട്രക്ടർ ദേഷ്യപ്പെട്ടു തുടർന്ന് അവർ ആസൂത്രണ തയ്യാറെടുപ്പ് അവതരണക്ഷമതയോടെ എല്ലാം ചെയ്തു ഈ ഒരു ചെറിയ തെറ്റ് കൊണ്ട് എല്ലാം തകരുകയും അവരുടെ ആസൂത്രണം പൂർണ്ണമായും വെളിപ്പെടുത്തുകയും ചെയ്തു മോശമാണെങ്കിൽ അവതരണക്ഷമത പ്രസക്തമല്ല അപ്പോൾ അവർ ശരിക്കും തയ്യാറായിരുന്നില്ല ഈ കോഴ്സിന്റെ ഇൻസ്ട്രക്ടർ രാജേഷ് ശേഖറോ രാജേഷോ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു ശ്വാരി അതിനാൽ അവർക്ക് അറിയില്ലായിരുന്നു അതിനാൽ അവർക്ക് അറിയാത്തപ്പോൾ ഇൻസ്ട്രക്ടർ ദേഷ്യപ്പെട്ടു അവരുടെ അഭ്യർത്ഥന സ്വീകരിക്കാതിരിക്കാൻ അവൻ ആഗ്രഹിച്ചു ഇപ്പോൾ ഇത് കണ്ട് മറ്റ് രണ്ട് സ്മാർട്ട് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ എങ്ങനെയെങ്കിലും കോഴ്സ് നേടാൻ ആഗ്രഹിച്ചതിനാൽ ഇതാണ് ചാങ്കുവും മാങ്കുവും അതിനാൽ അവർ സ്മാർട്ട് വിദ്യാർത്ഥികളാണ് അവർക്ക് അറിയാമായിരുന്നു ഇൻസ്ട്രക്ടർ മര്യാദയുള്ള പെരുമാറ്റത്തിൽ മതിപ്പുളവാക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ശരിയായി എഴുതണമെന്നും അങ്ങനെ അവർ പേര് ശരിയായി എഴുതണമെന്നും അവർ വളരെ മാന്യമായി പോയി അവർ സാറിനോട് അകത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു അതിനാൽ ഇൻസ്ട്രക്ടർ അവരും സന്തോഷിച്ചു പക്ഷേ അവസാനം ഇൻസ്ട്രക്ടർ നിരസിച്ചു എന്തുകൊണ്ടാണ് അവർ ഇവിടെ എഴുതിയത് പേര് ശരിയായി അവർക്ക് എല്ലാ ആകർഷകമായ രീതികളും ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇൻസ്ട്രക്ടർ പറഞ്ഞത് ഇല്ല കാരണം അവർ കോഴ്സ് നമ്പർ CHM 455 എഴുതിയതിനാൽ CHM 455 രസതന്ത്രത്തിലെ ഒരു കോഴ്സിനെ സൂചിപ്പിക്കുന്നു ജി 455 എഴുതുന്നതിനുപകരം ഇൻസ്ട്രക്ടർ ഈ കോഴ്സ് ഇംഗ്ലീഷിൽ നൽകണമെന്ന് അവർ ആഗ്രഹിച്ചു അവർ ഇംഗ്ലീഷ് ഇൻസ്ട്രക്ടറുടെ അടുത്തേക്ക് പോയി പക്ഷേ അവർ കോഴ്സ് നമ്പർ തെറ്റായി എഴുതി പ്രകോപിതനായ ഇൻസ്ട്രക്ടർ എഴുത്ത് ഉൾപ്പെടെ അവർ ചെയ്തതെന്തും വീണ്ടും പ്രകോപിപ്പിച്ചു മറ്റൊരു മണ്ടൻ തെറ്റ് കാരണം പരിശീലകന്റെ പേര് ശരിയായി തള്ളിക്കളഞ്ഞു തയ്യാറെടുപ്പ് അവതരണക്ഷമതയും നിങ്ങൾ വരുത്തുന്ന ഒരു ചെറിയ തെറ്റും ആസൂത്രണം ചെയ്യുന്നതിലൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം തകരുന്നു തെറ്റ് ചെയ്യുക ഇത് അവസാനിപ്പിക്കുന്നതിനുമുമ്പ് നമുക്ക് ഒരു സാഹചര്യം കൂടി നോക്കാം നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കാം സാഹചര്യം ഇപ്പോൾ ഒടുവിൽ വലിയ ബുദ്ധിമുട്ടോടെ ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ലഭിച്ചു എന്നാൽ മൂന്ന് ടൈംടേബിൾ ഏറ്റുമുട്ടൽ കാരണം അവരെ ഒഴിവാക്കി അവർക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അവരാരും ഇത് അറിയിച്ചിരുന്നില്ല ഇപ്പോൾ പരിശീലകനോട് ഇത് ഒരു മോശം കാര്യമാണ് അതിനാൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടോടെ ലഭിച്ചു തുടർന്ന് നിങ്ങൾ അത് ഉപേക്ഷിക്കുകയാണ് തുടർന്ന് നിങ്ങൾ ഇൻസ്ട്രക്ടറോട് പറയേണ്ടതുണ്ട് കാത്തിരിപ്പിൽ ഇൻസ്ട്രക്ടർ അവർക്ക് കത്തെഴുതുമ്പോൾ ഒരു അവസരം നൽകാം അവരിൽ ഒരാൾ മറുപടി നൽകി ഇനിപ്പറയുന്ന രീതിയിൽ ഇൻസ്ട്രക്ടറുടെ മെയിൽ ഇതാണ് പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളുടെ പേരുകൾ എഴുതിയിട്ടില്ല ഒടുവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ സഹായിക്കും കാത്തിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതിന് ദയവായി ഉടൻ തന്നെ ഇമെയിൽ വഴി അറിയിക്കുക ഇൻസ്ട്രക്ടറുടെ പേര് വിദ്യാർത്ഥി ഇങ്ങനെ മറുപടി നൽകി അതെ സർ ഞാൻ കോഴ്സ് ഉപേക്ഷിച്ചു സർ അസൌകര്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് സാഹചര്യം മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ ഒരു വശത്ത് നിങ്ങൾക്ക് ഒരു മെയിൽ എഴുതാൻ കഴിയുന്നത് നല്ലതാണ് അത് മൂന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് കാണപ്പെടുന്നു കുറഞ്ഞത് ഈ വിദ്യാർത്ഥി ഇൻസ്ട്രക്ടറോട് പ്രതികരിച്ചെങ്കിലും മറുവശത്ത് അങ്ങനെ തോന്നുന്നു വളരെ മോശമായി ആസൂത്രണം ചെയ്ത് ഇതുപോലുള്ള ഒരു മെയിൽ നൽകി പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് അവതരണം നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്നു അതിനാൽ ഇപ്പോൾ a യെ b യുമായി താരതമ്യം ചെയ്യുക ഈ വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിലൂടെ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതെ സർ എനിക്ക് ഉണ്ട് ആദ്യം ഡ്രോപ്പ് ചെയ്ത ഡി ചെറിയ അക്ഷരം തുടർന്ന് പി ഇ ഇ ഡി അങ്ങനെ ഡ്രോപ്പ് ചെയ്ത സിംഗിൾ ഇ ഇല്ല മൂലധനം ആവശ്യമാണ് ഒരു ചെറിയ കോഴ്സ് ഉണ്ട് ക്ഷമിക്കണം y അസൌകര്യത്തിന് നഷ്ടപ്പെട്ടു വീണ്ടും മറ്റൊരു സ്പെല്ലിംഗ് തെറ്റ് ഫുൾ സ്റ്റോപ്പ് ഇല്ല അതിനാൽ ഇത് വീണ്ടും ഈ മൊബൈലിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ എഴുതുമ്പോൾ ഇമെയിലിന് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള ഭാഷ എസ്എംഎസ് ടെക്സ്റ്റ് ചെയ്യുന്നു ഔപചാരികമായി ആരോടെങ്കിലും ഇപ്പോൾ മറ്റൊരു വിദ്യാർത്ഥിയിൽ നിന്നുള്ള മറ്റൊരു പ്രതികരണം നോക്കുക താരതമ്യം ചെയ്താൽ രണ്ടാമത്തെ പ്രതികരണത്തിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും പ്രിയ സർ ഈ വിദ്യാർത്ഥി ആരംഭിക്കുന്ന അഭിവാദ്യത്തിൽ നിന്നല്ല മുൻ വ്യക്തി ആരംഭിച്ചത് അതിനാൽ ദേഷ്യപ്പെടുന്ന വ്യക്തിക്ക് പോലും ദേഷ്യം അൽപ്പം കുറയുന്നു എന്നതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു വീണ്ടും കോപം കുറയ്ക്കുന്നു എന്റെ മറുപടി വൈകിയതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു കോഴ്സ് ഡ്രോപ്പിംഗിനെക്കുറിച്ച് അദ്ദേഹം വസ്തുത വ്യക്തമായി പറഞ്ഞതിനാൽ അത് കോപം പൂർണ്ണമായും കുറയ്ക്കുന്നു ഞാൻ മറ്റൊരു കോഴ്സിനായി അപേക്ഷിച്ചിരുന്നു ആരുടെ അഭ്യർത്ഥനയാണ് അദ്ദേഹം ഉപേക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു വളരെ വൈകിയാണ് സ്വീകരിച്ചത് അതിനാൽ അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല മറിച്ച് മറ്റൊന്നിൽ കോഴ്സ് അഭ്യർത്ഥന ആയിരുന്നു വൈകിയാണ് സ്വീകരിച്ചത് അതിനാൽ ഞാൻ കോഴ്സ് ഉപേക്ഷിക്കുന്നു എന്തെങ്കിലും അസൌകര്യത്തിന് ഞാൻ വീണ്ടും ഖേദിക്കുന്നു അവൻ ക്ഷമ ചോദിക്കുന്നു അതിനാൽ എനിക്ക് വിഷമം തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അസൌകര്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ പേര് എഴുതുന്നു അവൻ റോൾ നമ്പർ നൽകുന്നു അതിനാൽ നിങ്ങൾ ചീത്തയെ നല്ലതിനൊപ്പം ചേർക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കേണ്ട ഇമെയിൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക ഞാൻ ചർച്ച ചെയ്ത അഞ്ച് പി കളും പിന്തുടരേണ്ടതാണ് എന്നാൽ അതേ സമയം അവയും അവ മതിയാകുന്നില്ല അവ യഥാർത്ഥത്തിൽ അടിസ്ഥാന തത്വങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം ഇതുപോലുള്ള കാര്യങ്ങൾ പോലും അക്ഷരപ്പിശക് വ്യാകരണത്തിലെ തെറ്റ് അഭിവാദ്യം നൽകിക്കൊണ്ട് നമ്പർ ശരിയായി എഴുതുന്നു ഉചിതമായി ഈ കാര്യങ്ങൾ പ്രധാനമാകാൻ പോകുന്നു അതിനാൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും തുടർന്ന് വരുന്ന പ്രഭാഷണത്തിൽ ഞാൻ ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്ന് എടുത്തുകാണിക്കാൻ പോകുന്നു കാരണം നിങ്ങൾക്ക് മുമ്പ് ഇമെയിലുകൾ അയയ്ക്കാൻ പഠിക്കുക അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ തെറ്റായ പഠനം ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് ആദ്യം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കോഴ്സിലെ എന്റെ ശ്രമം ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്നതാണ് നിങ്ങൾ തെറ്റായി പഠിച്ച നിരവധി പഠനങ്ങൾ നിങ്ങൾ വീണ്ടും ചെയ്യുകയും പഴയപടിയാക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ ഒരു മോശം ശീലമായി ഉൾക്കൊള്ളുകയും അവ മോശം ശീലങ്ങളായി മാറിയെന്ന് അറിയാതെ തന്നെ പിന്നെ നിങ്ങൾ ഇത് വളരെക്കാലമായി അശ്രദ്ധമായി ഉപയോഗിക്കുന്നു ഇപ്പോൾ എന്റെ വെല്ലുവിളി കണ്ടെത്താനും ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതിരിക്കാനും തുടർന്ന് ഇവ പഠിക്കാനും ശരിയായതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് മോശം ഇമെയിലുകൾ നൽകാൻ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇല്ല യഥാർത്ഥത്തിൽ എങ്ങനെ നല്ല ഇമെയിലുകൾ അയയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള മറ്റ് രണ്ട് പ്രഭാഷണങ്ങളിലേക്ക് പോകുന്നതിനുമുമ്പ് ഇമെയിലുകൾ അയയ്ക്കാൻ നിങ്ങൾ പിന്തുടരേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്നതിനെക്കുറിച്ച് അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കും